ഹലോ എവരിവൺ ഡിസാസ്റ്റർ റിക്കവറി ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണത്തിൽ ഇന്ത്യയിലെ മുംബൈയിലെ ചില കേസ് പഠനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദുരന്തസാധ്യതാ ഭരണത്തിലെ കമ്മ്യൂണിറ്റി പങ്കാളിത്തത്തിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഞാൻ ക്യോട്ടോ യൂണിവേഴ്സിറ്റിയിലെ ഡിസാസ്റ്റർ പ്രിവൻഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ശുഭജ്യോതി സമദ്ദർ ആണ് ദുരന്തനിവാരണത്തിലും പുനർനിർമ്മാണത്തിലും പുനരധിവാസത്തിലും ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിലെ ഒരു പ്രധാന വാക്കാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ നാം സമൂഹത്തെ ഉൾപ്പെടുത്തണം റിക്കവറി മിറ്റിഗേഷൻ പ്രീപയേർഡ്നെസ് എന്നിവയിൽ നിന്ന് തുടങ്ങി ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇത് ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി അവലംബങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇത് ഒരുതരം ട്രബിൾഷൂട്ടറാണ് നിങ്ങളുടെ സ്ട്രാറ്റജിസ് നടപ്പിലാക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി പങ്കാളിത്തം കമ്മ്യൂണിറ്റിയുടെ ഇടപെടൽ പാർട്ടിസിപ്പേറ്ററി അപ്പ്രോച്ച് എന്നിവ ഉൾക്കൊള്ളുന്നു ഇത് ബ്രോക്കോളി പോലെയാണ് എല്ലാവരും നിങ്ങളോട് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടും ദുരന്തനിവാരണത്തിൽ ആസൂത്രണം ചെയ്യുന്ന ബ്രോക്കോളിയാണിത് കഴിക്കരുതെന്ന് ആരും പറയില്ല ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് വിജയകരമായി നടപ്പിലാക്കുന്നതിനുള്ള ഒരു ഉപകരണമായി കമ്മ്യൂണിറ്റി പങ്കാളിത്തം ഉണ്ടായിരിക്കണമെന്ന് എല്ലാവരും നിങ്ങളെ ശുപാർശ ചെയ്യും ഇപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അപകടസാധ്യത സബ്ജെക്റ്റീവ് ആണെന്ന് ഞങ്ങൾക്കറിയാം വ്യത്യസ്ത സ്റ്റേക്ക്ഹോൾഡേഴ്സിന് വ്യത്യസ്ത ധാരണകളുണ്ട് മാനേജ്മെന്റ് പ്രക്രിയയിൽ വ്യത്യസ്ത ധാരണകൾ വ്യത്യസ്ത ആശയങ്ങൾ ആവശ്യങ്ങൾ ആശങ്കകൾ എന്നിവ ഉൾപ്പെടുത്തുന്നതിന് സമൂഹത്തെ ഉൾപ്പെടുത്തേണ്ടത് പ്രധാനമാണ് അല്ലാത്തപക്ഷം തങ്ങൾ വഞ്ചിക്കപ്പെട്ടതായി ആളുകൾക്ക് തോന്നുന്നു തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ അവരെ യഥാർത്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അവർക്ക് ഓഹരിയുണ്ട് അതിനാൽ അവർക്ക് എന്താണ് വേണ്ടതെന്ന് ഞങ്ങളോട് പറയാൻ അവർക്ക് അവകാശമുണ്ട് കാരണം അവർക്കുള്ള ആശങ്കകൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം കാരണം അപകടസാധ്യത മാത്രമല്ല എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ എപ്പോൾ ചെയ്യും അത് എങ്ങനെ ചെയ്യും ആര് ചെയ്യും ഇത് ഈ നയ ഓപ്ഷനുകളും തർക്കത്തിലാണ് അതിനാൽ ഒന്ന് വിലയിരുത്തലാണ് അപകടസാധ്യതയുടെ പ്രശ്നം കണ്ടെത്തൽ മറ്റൊന്ന് നയപരമായ ഓപ്ഷനുകളാണ് അതിന് നമുക്ക് സമൂഹത്തിന്റെ പങ്കാളിത്തം ആവശ്യമാണ് കൂടാതെ പല കേസുകളിലും നമുക്ക് പ്രാദേശിക ഭരണകൂടത്തെ ആശ്രയിക്കാൻ കഴിയില്ല പ്രാദേശിക ജനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ദുരന്തത്തിന് ശേഷം അവർക്ക് അതിജീവിക്കാൻ കഴിയും കൂടാതെ പ്രാദേശിക സർക്കാരുകൾക്കോ ബാഹ്യ ഏജൻസികൾക്കോ അവരെ സമീപിക്കാൻ കഴിയുന്നതുവരെ അവർക്ക് സാഹചര്യം ശരിയായി കൈകാര്യം ചെയ്യാൻ കഴിയും സുസ്ഥിരതാ പ്രശ്നങ്ങൾക്കും സുസ്ഥിര സമൂഹത്തിനും ജനങ്ങളുടെ സ്വന്തം ശേഷി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് നാം അവരുടെ ശേഷി വർദ്ധിപ്പിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനാൽ സ്വാശ്രയത്വവും പ്രാദേശിക അറിവിന്റെ ഉപയോഗവും ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിൽ നിർണായക ഘടകമാണ് അതിനാൽ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിൽ കമ്മ്യൂണിറ്റി പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കണം എന്നാൽ വാസ്തവത്തിൽ ദുരന്തസാധ്യതാ മാനേജ്മെന്റിൽ സമൂഹത്തെ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വലിയൊരു ഗാപ് ആണ് എന്നാൽ യഥാർത്ഥത്തിൽ അത് നടക്കുന്നില്ല പോളിസിയും പ്രാക്റ്റീസും തിയറിയും ഇമ്പ്ലിമെന്റാഷനും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്രയധികം സമയവും ഊർജവും പണവും ചെലവഴിച്ച് തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ കമ്മ്യൂണിറ്റികളെ പ്രാദേശിക കമ്മ്യൂണിറ്റികളെ ഉൾപ്പെടുത്തുന്നതിൽ ഞങ്ങൾ പരാജയപ്പെടുന്നത് പങ്കാളിത്തത്തോടെയുള്ള ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു അത് പുനരധിവാസത്തിലാകാം തയ്യാറെടുപ്പിനായി ആകാം അത് എന്തുതന്നെയായാലും ഒരു കാരണം പാർട്ടിസിപ്പേഷൻ ആണ് പാർട്ടിസിപ്പേഷൻ മനസ്സിലാക്കുന്നു വ്യത്യസ്ത രീതികളിൽ പരിശീലിക്കുമ്പോൾ പങ്കാളിത്തത്തിന്റെ ഒരു യൂണിവേഴ്സൽ ഡെഫിനിഷൻ ശരിയാണ് അതിനാൽ ഡിസിഷൻ മേക്കിങ് പ്രോസസ്സിലേക്കും പ്ലാനിംഗ് പ്രോസസ്സിലേക്കും സമൂഹത്തെ എങ്ങനെ ഉൾപ്പെടുത്താം ഈ ധാരണ വിവാദമായി തുടരുന്നു ദൈനംദിന വ്യത്യസ്ത വീക്ഷണകോണിൽ നിന്ന് വിവിധ ആളുകൾ പങ്കാളിത്തത്തെ മനസ്സിലാക്കിയതായി ഞങ്ങൾക്ക് ധാരാളം ധാരണകളുണ്ട് ഷെറി ആർൻസ്റ്റീൻ വികസിപ്പിച്ചെടുത്ത ക്ലാസിക്കൽ മോഡലുകളിൽ ഒന്നാണിത് ഒപ്പം പാർട്ടിസിപ്പേഷൻറെ തരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പബ്ലിക് പാർട്ടിസിപ്പേഷൻറെ ഒരു ഗോവണിയാണ് നിങ്ങൾ ഇടത് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ മാനിപുലേഷൻസിൽ നിന്ന് ആരംഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും തുടർന്ന് ഇൻഫൊർമേഷൻസ് കൺസൾറ്റേഷൻസ് പാർട്ണർഷിപ് സിറ്റിസൺ കണ്ട്രോൾ ഇത് എന്താണ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് സന്ദർഭത്തിൽ നമുക്ക് ഈ മാതൃക മാറ്റാം എന്ന് നോക്കാം നമ്മൾ മാനിപുലേഷൻ തരത്തിലുള്ള കാര്യത്തെക്കുറിച്ചോ ഇൻഫർമേഷൻ തരത്തിലുള്ള കാര്യത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അത് ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നയിക്കുന്നു വിവരങ്ങളുടെ നിഷ്ക്രിയ സ്വീകർത്താവാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾ ഇത് ചെയ്യൂ എന്ന് അവരോട് പറയുന്നുനിങ്ങൾ ഒഴിഞ്ഞുമാറുക നിങ്ങളുടെ പ്ലിൻത്ത് ലെവൽ ശരിയാക്കുക വിദഗ്ദ്ധരായ ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഈ ലളിതമായ കാര്യങ്ങൾ ഞങ്ങൾ ആളുകളോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോകുന്നു അവർക്ക് വിവരങ്ങൾ ലഭിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യും അവർ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ശരിയാക്കുകയും ചെയ്യും അതിനാൽ ഞങ്ങൾ പിന്തുടരുന്ന ഒരു ലളിതമായ മാതൃകയാണിത് മറ്റൊന്ന് ടോക്കണിസം അല്ലെങ്കിൽ കൂടിയാലോചനകളാണ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ചിലർ പറയുന്നു ആളുകൾ നിഷ്ക്രിയരായ സ്വീകർത്താക്കൾ അല്ല എന്നതല്ല ഞങ്ങളുടെ ശ്രദ്ധ എന്നാൽ നമ്മൾ ചെയ്യുന്നത് അപകടസാധ്യത മനസ്സിലാക്കുന്നതിൽ അവരെ ഉൾപ്പെടുത്തുന്നു കാരണം ആളുകൾക്ക് അപകടസാധ്യതയെക്കുറിച്ച് വ്യത്യസ്തമായ ധാരണയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ അപകടസാധ്യതകൾ എന്തെല്ലാമാണെന്ന് അവർ കരുതുന്ന അപകടസാധ്യതയെക്കുറിച്ച് വിദഗ്ധരോടൊപ്പം ഞങ്ങളോട് പറയുന്നതിന് പങ്കെടുക്കാൻ ഞങ്ങൾ അവരോട് ആവശ്യപ്പെടണം അതിനാൽ റിസ്ക് വിലയിരുത്തലിനായി ഞങ്ങൾ അവരെ ഉൾപ്പെടുത്തുന്നു ഉയർന്ന തലത്തിലുള്ള കൂടിയാലോചനകളിൽ അപകടസാധ്യത വിലയിരുത്തുന്നതിലും അപകടസാധ്യത കണക്കാക്കുന്നതിലും ഞങ്ങൾ അവരെ ഉൾപ്പെടുത്തുക മാത്രമല്ല നഗരാസൂത്രണത്തിലെ മിക്ക കേസുകളിലും ഞങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കുകയും ഞങ്ങൾ പ്ലാൻ തയ്യാറാക്കുകയും തുടർന്ന് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പൌരന്മാരോ അല്ലെങ്കിൽ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയും ഞങ്ങൾ അവരെ കാണിക്കുകയും ചെയ്യുന്നു ഹേയ് ഞങ്ങൾ ഈ പ്ലാൻ തയ്യാറാക്കി ഈ പ്ലാൻ നല്ലതാണോ അല്ലയോ എന്ന് ഞങ്ങളോട് പറയൂ ഞങ്ങൾ തയ്യാറാക്കിയ പ്ലാൻ അവർ തയ്യാറാക്കിയില്ല പദ്ധതി വിദഗ്ധരും അധികാരികളും നടപ്പാക്കുന്ന ഏജൻസികളും അവർ പ്ലാൻ തയ്യാറാക്കി ഈ തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ സാധാരണക്കാരോട് ചോദിക്കുന്നു ഇത് ഇപ്പോഴും ഒരുതരം കൺസൾട്ടേഷനുകൾ ഒരുതരം ചോദ്യം ഒരുതരം കൺസൾട്ടേഷനുകളുടെ ചോദ്യമാണ് പങ്കാളിത്തത്തിൽ കുറച്ചുകൂടി തീവ്രസ്വഭാവമുള്ള ആളുകൾ ഇത് ഞങ്ങൾക്ക് വേണ്ടത്ര പോലും പര്യാപ്തമല്ലെന്ന് അവർ പറയുന്നു ഞങ്ങൾക്ക് സഹകരണപരമായ അറിവും പ്രവർത്തന പദ്ധതി വികസനവും സഹകരണപരവും സഹകരണപരമായ അറിവും ആവശ്യമാണ് ആ പ്രക്രിയയിൽ കമ്മ്യൂണിറ്റിയും പ്രാദേശിക നേതാക്കളും ഒപ്പം വിദഗ്ധരും അല്ലെങ്കിൽ ബാഹ്യ ഏജൻസികളും ഒരുമിച്ച് ഇരിക്കണം അവർ പരസ്പരം വിവരങ്ങൾ പങ്കിടണം സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള സമൂഹം സ്വന്തം പ്രാദേശിക അറിവിൽ നിന്ന് വിദഗ്ദ്ധരുടെ സ്വന്തം വൈദഗ്ധ്യത്തിൽ നിന്നുള്ള ശാസ്ത്രീയ ധാരണയിൽ നിന്ന് അവർ പ്രോജക്റ്റിലേക്ക് ഇൻപുട്ട് നൽകും തുടർന്ന് ഇരുവരും ഒരുമിച്ച് വിവരങ്ങൾ പങ്കുവെക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യും അവർ പ്രോബ്ലം മനസ്സിലാക്കും അവർ അഭിമുഖീകരിക്കുന്ന അപകടസാധ്യതകൾ എന്തൊക്കെയാണെന്നും അത് എങ്ങനെ പരിഹരിക്കാമെന്നും നമുക്ക് സ്വീകരിക്കാവുന്ന ഓപ്ഷനുകളും ടൂളുകളും തന്ത്രങ്ങളും എന്തൊക്കെയാണെന്നും മനസ്സിലാക്കും അതിനാൽ പങ്കാളിത്തം പരിശോധിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണിത് എന്നാൽ താഴെ നിന്ന് മുകളിലേക്ക് താഴെ നിന്ന് മുകളിലേക്ക് ഞാനും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ നടത്തുന്നു എന്ന് എല്ലാവരും പറയുന്നു നിങ്ങൾ തുറക്കുന്ന ഏതൊരു പ്രോജക്റ്റും ഞങ്ങളുടെ പ്രോജക്റ്റ് പങ്കാളിത്തമാണെന്ന് അവർ പറയും എന്നാൽ അത് വിവരങ്ങൾ നൽകുന്നതിനുള്ള പങ്കാളിത്തം മാത്രമായിരിക്കാം അല്ലെങ്കിൽ അത് ജനങ്ങളുമായുള്ള ഒരു വാല്യൂ കൺസൾറ്റഷൻ മാത്രമായിരിക്കാം അല്ലെങ്കിൽ അത് സഹകരണപരമായ അറിവിലോ പ്ലാൻ ഡെവലൊപ്മെന്റിലോ ആകാം അപ്പോൾ അവരെല്ലാം പാർട്ടിസിപ്പേറ്ററി ആണെങ്കിൽ നമുക്ക് നഷ്ടമാകും അതിനാൽ ആളുകൾക്ക് വ്യത്യസ്ത ധാരണകളുണ്ട് പങ്കാളിത്തത്തിന് യൂണിവേഴ്സൽ ഡെഫിനിഷൻ ഇല്ല ആസൂത്രണ പ്രക്രിയയിൽ കമ്മ്യൂണിറ്റിയെ ഉൾപ്പെടുത്തുന്നത് ശരിക്കും വെല്ലുവിളി നിറഞ്ഞതാണ് അത് മാത്രമല്ല ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യത്യസ്ത പാർട്ടിസിപ്പേറ്ററി ടൂൾസ് ഉണ്ട് ഞങ്ങൾക്ക് റിസ്ക് മാപ്പിംഗ് ഉണ്ട് ഞങ്ങൾക്ക് യോൺമെൻകൈഗി സിസ്റ്റം മെത്തേഡ് അല്ലെങ്കിൽ ഫോർസ്ക്വയർ ടേബിൾ മെത്തേഡ് അല്ലെങ്കിൽ ചില ഡിസാസ്റ്റർ ഗെയിംസ് അല്ലെങ്കിൽ ചില സെനാരിയോ ഡെവലൊപ്മെന്റ് അല്ലെങ്കിൽ ചില ഇന്ററാക്ടീവ് വർക്ക്ഷോപ്പുകൾ ഉണ്ട് അതിനാൽ ഇവയെല്ലാം പാർട്ടിസിപ്പേറ്ററി ടൂൾസ് ആയി കണക്കാക്കപ്പെടുന്നു അതായത് പാർട്ടിസിപ്പേറ്ററി പ്രോസസ്സിൽ പ്രാദേശിക സമൂഹത്തെ ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപകരണം നമുക്ക് ഇപ്പോൾ നിരവധി ടൂളുകൾ ഉണ്ട് ഈ ടൂളുകൾ അവ പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അവരുടെ ഘടനയുടെ അടിസ്ഥാനത്തിൽ അവരുടെ രീതിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ സമയം വിഭവങ്ങൾ വൈദഗ്ദ്ധ്യം എന്നിവയിൽ പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു യോൺമെൻകൈഗി നടത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് ഗെയിം നടത്താൻ കഴിയില്ല എന്നാൽ അവയ്ക്കെല്ലാം എല്ലാ പാർട്ടിസിപ്പേറ്ററി ഉപകരണങ്ങളും അവർക്ക് ഒരു പൊതു ലക്ഷ്യവുമുണ്ട് അത് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് പ്രോസസ്സിൽ സമൂഹത്തെ ഉൾപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു പ്രാക്ടീഷണറായിരിക്കുമ്പോൾ ഡിസിഷൻ മേക്കിങ് പ്രോസസ്സിൽ സമൂഹത്തെ ഫലപ്രദമായി ഉൾപ്പെടുത്തുന്നതിന് ഏത് ഉപകരണം സ്വീകരിക്കണം എന്നതിൽ ഞാൻ വളരെ ആശയക്കുഴപ്പത്തിലാണ് എനിക്കറിയില്ല പിന്നെ ഏത് അടിസ്ഥാനത്തിലാണ് ഞാൻ ശ്രമിക്കേണ്ടത് ഒരു പ്രാക്ടീഷണർ എന്ന നിലയിൽ ഇത് ഒരു യഥാർത്ഥ ആശയക്കുഴപ്പമാണ് ഈ ചോദ്യം ഒരു എക്സ്പെർട്ടിനോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ വിവിധ തരത്തിലുള്ള പാർട്ടിസിപ്പേറ്ററി എക്സെർസൈസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ട് അപകടസാധ്യത അല്ലെങ്കിൽ ആളുകളുടെ ധാരണകൾ മനസ്സിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണോ അതോ അപകടസാധ്യത എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതാണോ ആ എക്സെർസൈസിന്റെ ഉദ്ദേശ്യം അവർ എങ്ങനെയാണെന്നതിൽ വലിയ അളവിൽ വ്യത്യാസമുണ്ട് ചില പഠനങ്ങൾ കാണിക്കുന്നത് മിക്ക കേസുകളിലും ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് പാർട്ടിസിപ്പേറ്ററി ടൂൾസിൽ അവരുടെ ശ്രദ്ധ അപകടസാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിലാണ് എന്നാൽ അപകടസാധ്യത എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ അവർക്ക് ശ്രദ്ധ കുറവാണ് അതുകൊണ്ട് എന്തുചെയ്യണമെന്ന് ആളുകൾക്ക് അറിയില്ലെങ്കിൽ അത് അവരെ ഫാറ്റലിസ്റ് ആക്കുന്നു അത് അവരെ നിരാശരാക്കുന്നു എനിക്കറിയില്ലെങ്കിൽ അപകടസാധ്യത അറിയുന്നതും എളുപ്പമല്ല അതിനാൽ അവർ പങ്കെടുക്കാതിരിക്കാൻ ഇഷ്ടപ്പെടുന്നു മറ്റൊന്ന് ഞങ്ങൾ പാർട്ടിസിപ്പേറ്ററി എക്സെർസൈസുകൾ നടത്തുമ്പോൾ അത് ഒരുതരം കലയും ഒരുതരം വൈദഗ്ധ്യവുമാണ് അത് എക്സെർസൈസ് സമയത്ത് നിങ്ങൾ ഏത് ഭാഷയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ പ്രാദേശിക അറിവോ പ്രാദേശിക ഭാഷയോ വിദേശ ഭാഷയോ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഫെസിലിറ്റേറ്ററുടെ അനുഭവം എന്താണ് അവൻ എത്രത്തോളം അറിവുള്ളയാളാണ് അവന്റെ അനുഭവം അല്ലെങ്കിൽ അവളുടെ അനുഭവം പ്രധാനമാണ് മറ്റൊരാൾക്ക് ധാരാളം അനുഭവങ്ങളുണ്ട് അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് ഒരു പുതിയ വ്യക്തിയെക്കാൾ മികച്ച രീതിയിൽ നൽകാൻ കഴിയും ഇതൊരു പ്രായോഗിക പ്രൊഫഷണൽ കാര്യമാണ് കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ള കമ്മ്യൂണിറ്റിക്കുള്ളിൽ നിങ്ങൾ ഏത് സ്ഥലത്താണ് പാർട്ടിസിപ്പേറ്ററി എക്സെർസൈസ് നടത്തുന്നത് അത് എത്ര സമയമെടുക്കുന്നു എന്നതിന്റെ മറ്റൊരു വേരിയബിളാണ് ഇത് ഇത് വളരെ സമയമെടുക്കുമോ കുറച്ച് സമയമെടുക്കുമോ അതിനാൽ ഡിസിഷൻ മേക്കിങ് പ്രോസസ്സിൽ സമൂഹത്തെ ഫലപ്രദമായി ഉൾപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഈ വേരിയബിളുകൾ പരിഗണിക്കണം കൂടാതെ എക്സെർസൈസ് അല്ലെങ്കിൽ ഫെസിലിറ്റേഷൻ പ്രോസസ്സിന്റെ നിയന്ത്രണം സംബന്ധിച്ച ഒരു ചോദ്യമുണ്ട് ആരൊക്കെ പങ്കെടുക്കും എപ്പോൾ പങ്കെടുക്കും എന്താണ് ചർച്ച ചെയ്യേണ്ടത് പങ്കെടുക്കുന്നവരുടെ എണ്ണം എന്നിവയെല്ലാം ഫെസിലിറ്റേറ്ററാണ് നിയന്ത്രിക്കുന്നതെന്ന് പല പരിധികളിലും ചിലർ വാദിച്ചു അതിനാൽ ഇവയ്ക്കൊപ്പം പങ്കാളിത്തം സംബന്ധിച്ച ചോദ്യങ്ങളാണെങ്കിലും എല്ലാം തീരുമാനിക്കുന്നത് ഫെസിലിറ്റേറ്ററാണ് അതിനാൽ എല്ലാം നിയന്ത്രിക്കാനുള്ള അധികാരം അവനുണ്ട് അതിനാൽ അവൻ ചെറുതും ചെറുതുമായ പരിശ്രമത്തിലൂടെ ഒരു അതികായനാകുന്നതിനുപകരം മറ്റുള്ളവരുടെ ശക്തിക്കായി ആരെയെങ്കിലും പ്രതിനിധീകരിച്ചു ഒരു പ്രധാനപ്പെട്ട ആളിന് എല്ലാം ശരിയാക്കാൻ കഴിയും അതിനാൽ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിൽ കമ്മ്യൂണിറ്റികളുടെ പങ്കാളിത്തം പരിഗണിക്കുമ്പോൾ ഇത് നിയന്ത്രിക്കണം കൂടാതെ ഇതുപോലുള്ള കമ്മ്യൂണിറ്റി പങ്കാളിത്തത്തിന്റെ പ്രയോജനത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള ചോദ്യവും ചില ഫലങ്ങളാണ് ജനങ്ങളിൽ അവബോധം വർദ്ധിപ്പിക്കുന്ന കമ്മ്യൂണിറ്റിയെ ഉൾപ്പെടുത്തുന്നത് പോലെയുള്ള പാർട്ടിസിപ്പേറ്ററി പ്രോജക്ടുകളിൽ നിന്ന് വരുന്ന ഫലങ്ങളാണിവ അത് മെച്ചപ്പെട്ട സ്വീകാര്യമായ തീരുമാനങ്ങൾ നൽകും പങ്കാളികൾ തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാനും ഇതിന് കഴിയും അതിന് തയ്യാറെടുപ്പ് മെച്ചപ്പെടുത്താനും ജനങ്ങളെ ശാക്തീകരിക്കാനും കഴിയും അവർക്ക് പങ്കെടുക്കാൻ കൂടുതൽ സന്നദ്ധതയുണ്ട് അവർ കൂടുതൽ സ്വയം ആശ്രയിക്കുന്നവരാണ് ബാഹ്യ സഹായമില്ലാതെ അവർക്ക് സ്വയം ചെയ്യാൻ കഴിയും ഇവ ശരിയാണ് പക്ഷേ പ്രശ്നം എന്തെന്നാൽ ഈ ഫലങ്ങൾ ഗവൺമെന്റിന്റെയും സർക്കാരിതര സംഘടനകളുടെയും വിവിധ സംഘടനകളുടെയും ഈ അവകാശവാദങ്ങൾ പരിശീലകരും ഗവേഷകരും ഈ അവകാശവാദങ്ങൾ ശരിക്കും ശരിയാണെന്നതിന് മതിയായ തെളിവുകൾ ഞങ്ങളുടെ പക്കലില്ല എന്നതാണ് പ്രശ്നം ഡിസിഷൻ മേക്കിങ് പ്രോസസ്സിൽ സമൂഹത്തെ ഉൾപ്പെടുത്തുന്നതിലൂടെ നമുക്ക് അത് ശരിക്കും നേടാൻ കഴിയും ഇത് ഇപ്പോഴും അജ്ഞാതമാണ് എന്നിരുന്നാലും ഞങ്ങളുടെ പ്രോജക്റ്റ് മികച്ചതാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു ഞങ്ങളുടെ എക്സെർസൈസാണ് മികച്ചത് അതിനാൽ ഇത് എങ്ങനെ നിർമ്മിക്കാമെന്ന് ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് മറ്റൊരിടത്തേക്ക് സ്കെയിൽ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് റൂർക്കിയിൽ ഉചിതമായ പദ്ധതി ഡൽഹിയിൽ അനുയോജ്യമല്ലായിരിക്കാം ഡെറാഡൂണിൽ അനുയോജ്യമല്ലായിരിക്കാം അതിനാൽ അവ എന്തുചെയ്യണമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് പങ്കാളിത്തത്തിന്റെയോ പങ്കാളിത്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിന്റെയോ ഒരൊറ്റ നാമകരണം ഇല്ല എന്നതാണ് മറ്റൊരു പ്രശ്നം ഞങ്ങൾ ഇതിന് നിരവധി പേരുകൾ നൽകുന്നു ഉദാഹരണത്തിന് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് CBDM ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് പാർട്ടിസിപ്പേറ്ററി ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് ലോക്കൽ ലെവൽ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് മൾട്ടി സ്റ്റേക്ക്ഹോൾഡർ പാർട്ടിസിപ്പേഷൻ കൊളാബോറേറ്റീവ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് എന്നിവയെല്ലാം പാർട്ടിസിപ്പേറ്ററി ആയി പരിഗണിക്കപ്പെടുന്നു പക്ഷേ അവർക്ക് മറ്റൊരു പേരുണ്ട് ഒരു പരിശീലകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കമ്മ്യൂണിറ്റിയുടെ നിയമങ്ങൾ അവ എങ്ങനെ വ്യത്യസ്തമാണ് എന്നത് വളരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു എന്തുകൊണ്ടാണ് അവർക്ക് വ്യത്യസ്ത പേരുകൾ നൽകിയിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ സാഹചര്യത്തെ സങ്കീർണ്ണമാക്കുന്നു തൽഫലമായി ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഉടനീളം ഞങ്ങൾ കണ്ടെത്തുന്നത് പാർട്ടിസിപ്പേറ്ററി പരിപാടികൾ പാർട്ടിസിപ്പേറ്ററി പരിശീലന പദ്ധതികളാണ് അത് വിജയകരമോ ഫലപ്രദമോ ആയ എവിടെയെങ്കിലും വിളിച്ചാൽ ഈ അറിവ് മറ്റൊരിടത്തേക്ക് കൈമാറാൻ ഞങ്ങൾക്ക് കഴിയില്ല വളരെ പ്രാദേശികമായ സൈറ്റ് സ്പെസിഫിക് ആയതിനാൽ ഞങ്ങൾക്ക് അത് വിവർത്തനം ചെയ്യാൻ കഴിയില്ലെന്ന് അവർ പറയുന്നു അതിനാൽ സിദ്ധാന്തവും പ്രയോഗവും തമ്മിൽ വലിയ അന്തരമുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം ഒരു ഫ്രെയിംവർക് വികസിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് ചില ആളുകൾ പറയുന്നു നമുക്ക് ഒരു തരം മൂല്യനിർണ്ണയം ആവശ്യമാണ് എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് വിലയിരുത്തുക അതിനായി നമുക്ക് വിലയിരുത്തൽ ആവശ്യമാണ് ആ മൂല്യനിർണ്ണയത്തിന് ഞങ്ങൾക്ക് കുറച്ച് ഫ്രെയിംവർക് ആവശ്യമാണ് അതിനാൽ പങ്കാളിത്തത്തോടെയുള്ള ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിന് ഒരു ഫ്രെയിംവർക് ഉണ്ടായിരിക്കണം ഈ പ്രോജക്റ്റ് നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ സമൂഹത്തെ ഉൾപ്പെടുത്താൻ ഈ പ്രോജക്റ്റ് നന്നായി പ്രവർത്തിക്കുന്നില്ലെന്നും ഇതിലൂടെ നിങ്ങൾക്ക് പറയാൻ കഴിയും അതിനാൽ അതിനെക്കുറിച്ച് ധാരാളം സിദ്ധാന്തങ്ങളുണ്ട് പക്ഷേ നമുക്ക് ആ സിദ്ധാന്തങ്ങൾ ശേഖരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരുതരം സമന്വയത്തിന്റെ ഒരു ചിത്രം ലഭിക്കും ഞങ്ങൾ കണ്ടെത്തിയത് മിക്ക വാദങ്ങളും രണ്ട് തൂണുകളിലായാണ് വരുന്നത് അല്ലെങ്കിൽ രണ്ട് ഘടകങ്ങൾ രണ്ട് പ്രധാന ഘടകങ്ങൾ ഒരു പാർട്ടിസിപ്പേഷൻ പിന്തുടരേണ്ട ഒരു പ്രോസസ്സ് ഉണ്ടെന്നും പങ്കാളിത്തത്തിൽ നിന്ന് നമുക്ക് നേടാനാകുന്ന ഒരു ഫലമുണ്ടെന്നും ഉള്ള പ്രോസസ് ചെയ്ത അടിസ്ഥാന മാനദണ്ഡമാണ് ഒരു ഘടകം അപ്പോൾ എന്താണ് പ്രോസസ്സ് ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിച്ച ഫലം കൈവരിക്കുന്നതിനുള്ള ഒരു പാതയാണിത് അതിനാൽ എനിക്ക് ചില പ്രവർത്തനങ്ങൾ പിന്തുടരേണ്ടതുണ്ട് ചില ഘട്ടങ്ങൾ ചില നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ഒരു തരം സംവിധാനമാണ് ആരൊക്കെ ചേർക്കും ആര് ചേരും എപ്പോൾ എത്രത്തോളം വരും കമ്മ്യൂണിറ്റിയുടെ നേരത്തെയുള്ളതും തുടർച്ചയുള്ളതുമായ ഇടപഴകൽ പ്രസക്തമായ പങ്കാളികളുടെ പ്രാതിനിധ്യം ന്യായബോധം ശേഷി വർദ്ധിപ്പിക്കൽ പ്രാദേശിക അറിവ് ഉൾപ്പെടുത്തൽ നല്ല സൌകര്യം വിഭവ ലഭ്യത തുടങ്ങിയ പാർട്ടിസിപ്പേറ്ററി മാർഗങ്ങളുടെ ഗുണനിലവാരവും സവിശേഷതകളും ചേരുകയും വിലയിരുത്തുകയും ചെയ്യുക ഇവയെ പാർട്ടിസിപ്പേറ്ററി ആയി കണക്കാക്കണം അപ്പോൾ ഞങ്ങൾക്ക് ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള മാനദണ്ഡങ്ങളുണ്ട് പങ്കാളിത്തത്തിൽ നിന്ന് നമുക്ക് നേടാനാകുന്ന പങ്കാളിത്തമാണിത് അപ്പോൾ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള മാനദണ്ഡങ്ങളിൽനിന്ന് പ്രതീക്ഷിച്ച ഫലങ്ങൾ ശരിയാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കമ്മ്യൂണിറ്റികളുടെ ഡിമാൻഡ് ബുദ്ധിമുട്ടുള്ള കാലതാമസം കുറയ്ക്കുക തീരുമാനമെടുക്കൽ ഉടമസ്ഥാവകാശം വർദ്ധിപ്പിക്കുക സമവായം കെട്ടിപ്പടുക്കുക പരസ്പര വിശ്വാസം ബഹുമാനം ഉടമസ്ഥത സുതാര്യത ഉത്തരവാദിത്തം വൈരുദ്ധ്യ പരിഹാരം സമവായം കെട്ടിപ്പടുക്കൽ ചെലവും സമയവും എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനം എന്താണ് അതിനാൽ അതിനെ അടിസ്ഥാനമാക്കി നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഫ്രെയിംവർക് വികസിപ്പിക്കാൻ കഴിയും ഇടത് വശത്ത് ഞങ്ങൾക്ക് പൊതു പാർട്ടിസിപ്പേറ്ററി പ്രോസസ്സ് ഉണ്ട് വലതുവശത്ത് പൊതു പാർട്ടിസിപ്പേറ്ററി പ്രോസസ്സ് പോലെയുള്ള പൊതു പങ്കാളിത്തത്തിന്റെ ഫലങ്ങൾ ഞങ്ങൾക്കുണ്ട് കമ്മ്യൂണിറ്റിയുടെയും പ്രാതിനിധ്യത്തിന്റെയും ആദ്യകാല ഇടപെടൽ ഞങ്ങൾ പരിഗണിക്കാം അതിനാൽ സമൂഹത്തിന്റെ ആദ്യകാല ഇടപഴകൽ അതിനർത്ഥം പങ്കാളിത്തത്തിന്റെ തുടക്കം മുതൽ സമൂഹം ഇടപെടണം എന്നാണ് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ കെട്ടിപ്പടുക്കാൻ അവർ പെട്ടെന്ന് ആവശ്യപ്പെടുമെന്നല്ല നിലവിലുള്ള പ്രശ്നം എന്താണെന്ന് ഞങ്ങൾ ആദ്യം അറിയിക്കണം അവിടെ നിലവിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തുടർന്ന് പങ്കാളികളുടെ പ്രാതിനിധ്യം ശരിയാണ് സമുദായം ഒരു ബ്ലാക്ക് ബോക്സ് അല്ല പരസ്പരം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ചിലത് വർഗ്ഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ലിംഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജാതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ എല്ലാ വിഭാഗങ്ങളിലെയും എല്ലാ പ്രതിനിധികളും ഈ പ്രക്രിയയിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ ഉറപ്പാക്കണം ഉറപ്പാക്കാൻ ശ്രമിക്കണം പ്രക്രിയയെ അടിസ്ഥാനമാക്കിയുള്ള മൂന്നാമത്തെ മാനദണ്ഡം തുടക്കത്തിൽ തന്നെ വ്യക്തവും അംഗീകരിക്കപ്പെട്ടതുമായ ലക്ഷ്യമാണ് ഞങ്ങൾ കമ്മ്യൂണിറ്റിയുമായി ചർച്ച ചെയ്ത പല കേസുകളും ഞങ്ങൾക്ക് അംഗീകരിക്കപ്പെട്ട ലക്ഷ്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളൊന്നും ഇല്ലായിരിക്കാം ഇത് എല്ലായ്പ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ വളരെ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് നല്ലത് ശരി ഇവയാണ് ഞങ്ങളുടെ ചില ലക്ഷ്യങ്ങൾ ഞങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ പ്രോജക്റ്റിൽ നിന്ന് അവർക്ക് എന്താണ് പ്രതീക്ഷിക്കാനാവുക എന്ന ആശയം ഇത് സമൂഹത്തിന് നൽകും കൂടാതെ തുടക്കത്തിൽ തന്നെ ചില താൽക്കാലിക സമവായത്തിലെങ്കിലും എത്തിച്ചേരാനാകും ഇതാണ് ഫലം അതിനായി നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ മറ്റൊന്ന് കമ്മ്യൂണിറ്റിയുടെ തുടർച്ചയായ ഇടപഴകൽ ശരിയാണ് നിങ്ങൾ അവരോട് ആദ്യം തന്നെ പങ്കെടുക്കാൻ ക്ഷണിച്ചു എന്നല്ല നിങ്ങൾ അവരെ മറന്നു ഇല്ല നിങ്ങൾ അവരെ മറക്കരുത് ആസൂത്രണ പ്രക്രിയയുടെ എല്ലാ മേഖലകളിലും അവരുമായി കൂടിയാലോചനകൾ തുടരണം എന്താണ് പ്രശ്നം എന്താണ് ചെയ്യേണ്ടത് ആരു ചെയ്യും നമ്മൾ എങ്ങനെ ചെയ്യും അതിനാൽ അവരുടെ റോളുകളും ഉത്തരവാദിത്തങ്ങളും പരാമർശിക്കേണ്ടതാണ് അതിലൂടെ സമൂഹത്തിന് ഒരു തരത്തിലുള്ള ഉടമസ്ഥാവകാശം അനുഭവപ്പെടുകയും ശരിയാണ് ഞാൻ പദ്ധതിയിലുണ്ട് ഇവ എന്റെ പങ്കാളിത്തമാണ് അതിനാൽ ഇത് അവർക്ക് പ്രോജക്റ്റിനെക്കുറിച്ച് കൂടുതൽ ഉത്തരവാദിത്തവും സുതാര്യവുമായ ചിത്രം സൃഷ്ടിക്കും ഫെയർനെസ് ഫെയർനെസ് എന്നത് ഞങ്ങൾ ചർച്ച ചെയ്ത ഒരുതരം ഘടകമാണ് ശരിയാണ് ചിലപ്പോൾ ആളുകൾ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പറയുന്നു പക്ഷേ ഇത് ഫിസിക്കൽ പർട്ടിസിപ്പേഷൻ മാത്രമാണ് അവർക്ക് അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അധികാരമോ സ്വാതന്ത്ര്യമോ ഇല്ല ഒരു ഗ്രാമത്തിൽ ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും ഉണ്ടെങ്കിൽ അവർ ഈ പ്രക്രിയയിൽ ചർച്ചകളിൽ ഏർപ്പെടുകയും ചില പ്രബലജാതി പ്രബല വർഗത്തിൽ പെട്ടവരായിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ കീഴ്ജാതിക്കാരെയോ താഴ്ന്ന വിഭാഗക്കാരെയോ സ്വതന്ത്രമായി സംസാരിക്കാൻ അവർ അനുവദിക്കുന്നില്ല ഏതെങ്കിലും പുതിയ വിഷയം അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ തന്ത്രങ്ങൾ നിർദ്ദേശിക്കുക അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും നിർദ്ദേശിക്കാനും എല്ലാവർക്കും തുല്യവും തുല്യവുമായ അവകാശം ഉണ്ടായിരിക്കണം പിന്നെ മറ്റൊരു പാർട്ടിസിപ്പേറ്ററി ഘടകമാണ് തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ള ശക്തി പല കേസുകളിലും ആളുകളെ ക്ഷണിക്കുന്നു ആളുകൾ ഇടപഴകുന്നു പക്ഷേ ബാഹ്യ ഏജൻസികളിൽ നിന്ന് വരുന്ന പ്രധാന സാമ്പത്തിക സ്രോതസ്സുകൾ സാമ്പത്തിക ഏജൻസിയായിരിക്കാം കമ്മ്യൂണിറ്റിക്ക് സാമ്പത്തികമായി കുറച്ച് സംഭാവന മാത്രമേ ഉള്ളൂ എന്നാൽ ബാഹ്യ ഏജൻസി അവർ കമ്മ്യൂണിറ്റിയുമായി കൂടിയാലോചിച്ച് പ്രക്രിയയിലുടനീളം അവരെ ഉൾപ്പെടുത്തുന്നു എന്നാൽ അവർ തീരുമാനമെടുക്കുമ്പോൾ അവർ പ്ലാൻ ചെയ്യുമ്പോൾ സമൂഹത്തിന്റെ അഭിപ്രായ നിരീക്ഷണങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും പ്രതിഫലനങ്ങൾ ഉണ്ടാകില്ല അതുകൊണ്ട് സമൂഹത്തിന് തീരെ കുറഞ്ഞ ശക്തിയേ ഉള്ളൂ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ വളരെ കുറച്ച് ഓഹരിയാണുള്ളത് എന്നാൽ ഭരണാധികാരം വളരെ പ്രധാനമാണ് ഡിസിഷൻ മേക്കിങ് പ്രോസസ്സിൽ സമൂഹം ഇടപെടണം അവർ ഒരു നിശ്ചിത അളവിലുള്ള സ്വാതന്ത്ര്യവും അധികാരവും ആസ്വദിക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയ നിയന്ത്രിക്കണം കപ്പാസിറ്റി ബിൽഡിംഗ് കപ്പാസിറ്റി ബിൽഡിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമൂഹത്തിന് മറ്റുള്ളവരുമായി ചർച്ച നടത്താനും മറ്റുള്ളവരുമായി വിലപേശാനും അല്ലെങ്കിൽ ചർച്ചകളിൽ പങ്കെടുക്കാനും മറ്റ് പങ്കാളികളുമായി ഇടപഴകുന്നതിന് അവർക്ക് ചില അറിവോ കഴിവുകളോ ഉണ്ടായിരിക്കണം ചിലപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ അഭാവമോ നിരക്ഷരതയോ സ്ഥലത്തിന്റെ വിദൂരതയോ ബാഹ്യ ഏജൻസികളുമായോ ബാഹ്യ മാധ്യമങ്ങളുമായോ അവർ എക്സ്പോഷർ ചെയ്യുന്നതിന്റെ വിദൂരത കമ്മ്യൂണിറ്റിയിലെ ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കമ്മ്യൂണിറ്റികൾ അവർക്ക് അത്തരം അറിവുകൾ കുറവാണ് സാങ്കേതിക പരിജ്ഞാനം അല്ലെങ്കിൽ ബാഹ്യമായ അറിവ് അല്ലെങ്കിൽ ബാഹ്യ അറിവ് അല്ലെങ്കിൽ ഔപചാരിക അറിവ് അതിനാൽ അവർക്ക് ബാഹ്യ ഏജൻസികളുമായി ഫലപ്രദമായി ചർച്ചകൾ നടത്താൻ കഴിയില്ല അതിനാൽ മറ്റുള്ളവരുമായി വിലപേശാനുള്ള ഈ ശക്തി അവർക്ക് ഉണ്ടായിരിക്കണം അതിലൂടെ നാം അവരുടെ അറിവും ശേഷിയും മെച്ചപ്പെടുത്തണം അവർക്ക് ആശ്രയിക്കാനും സ്വയം വിശ്വസിക്കാനും കഴിയും ഇത് പ്രധാനമാണ് ഗുഡ് ഫെസിലിറ്റേഷൻ പ്രോസസ്സ് പ്രോഗ്രാമിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാതിരിക്കാൻ ഫേസ് ടു ഫേസ് പ്രാദേശിക ഭാഷ ഉപയോഗിക്കൽ തുടങ്ങിയ മതിയായ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം ഫെസിലിറ്റേഷൻ പ്രോസസ്സിൽ നാം പരിഗണിക്കേണ്ട ചില ഘടകങ്ങളാണിവ അതിനാൽ ഫലപ്രദമായി പാർട്ടിസിപ്പേറ്ററി ടൂൾസ് നടത്തുക എന്നത് ഫെസിലിറ്റേറ്ററുടെ ഒരുതരം കലയും വൈദഗ്ധ്യവുമാണ് അതിനാൽ സമൂഹത്തിൽ നല്ല സൌകര്യങ്ങൾ നൽകുമ്പോൾ നാം പരിഗണിക്കണം എന്നിട്ട് വേണം പ്രാദേശികമായ അറിവുകൾ ഉൾക്കൊള്ളാൻ ലാറ്റെന്റ് നോളഡ്ജ് ടാസിറ്റ് നോളഡ്ജ് എന്നീ കാര്യങ്ങളും പ്രധാനമാണ് അതിനാൽ ആളുകൾ അനുഭവിച്ചറിയുന്ന ആ അറിവ് പിടിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കണം ആളുകൾ അവരുടെ അനുഭവവും അവരുടെ പരമ്പരാഗത ജീവിതവും ഒരു അറിവ് വികസിപ്പിക്കുന്ന അതേ സ്ഥലത്തോടൊപ്പം ഉപയോഗിക്കുന്നു അത് പോലും കൂടാതെ അവർക്ക് മണൽ ചെളി ഉള്ളത് പോലെയുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ മരങ്ങൾ ഉണ്ടായിരിക്കണം പ്രകൃതിദത്തവും മറ്റ് വിഭവങ്ങളും അവയിലുള്ള അറിവും ഉപയോഗിക്കേണ്ടവയും പദ്ധതിയെ കൂടുതൽ ലാഭകരമാക്കുകയും അവർക്ക് അവരുടെ ഉടമസ്ഥാവകാശം അനുഭവിക്കുകയും ചെയ്യാം എന്തെങ്കിലും വിഭവം ലഭ്യമായിരിക്കണം നടപ്പാക്കലുകളുടെ കാര്യത്തിൽ പങ്കാളിത്തം വിജയിക്കണം എന്നതുപോലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഫലമാണ് മറ്റൊന്ന് നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കി സംസാരിച്ചിട്ട് എല്ലാം മറന്നു എന്നല്ല പദ്ധതികളുടെ ഫലം എന്താണെന്ന് നാം വ്യക്തമായി പറയണം ട്രാന്സ്പരെൻസി ആൻഡ് അക്കൌണ്ടബിലിറ്റി പദ്ധതികളുടെ ചെലവ് എത്രയെന്നത് പോലെ അതിൽ നിന്ന് ആർക്കാണ് പ്രയോജനം ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കണം ഉത്തരവാദിത്തമുള്ളവർ എന്താണ് വിതരണം എന്നത് ആളുകൾ വഹിക്കുന്ന റോളുകൾ എന്തൊക്കെയാണ് പങ്കാളിത്തത്തിലൂടെ നേടിയെടുക്കേണ്ട പരസ്പര വിശ്വാസം പൊരുത്തക്കേടുകൾ പരിഹരിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് പങ്കാളികൾ വിശ്വസിക്കണം തങ്ങൾക്കിടയിലുള്ള അവിശ്വാസത്തെ അനുയോജ്യമായ പങ്കാളിത്തം എന്ന് വിളിക്കുന്നു നിങ്ങൾ ചില പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുമ്പോൾ ആ പ്രോജക്റ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണെന്ന് ഉടമസ്ഥതയുടെ തോന്നൽ നിങ്ങൾ പുതിയ വീടുകൾ പുനർനിർമ്മിക്കുന്നു അത് ദുരന്തബാധിതരായ ആളുകൾക്ക് വേണ്ടിയാണ് അതിനാൽ പദ്ധതിയുടെ അവസാനം ആളുകൾ അത് സ്വന്തമാക്കണം അവർ ആ വീട് നിരസിക്കരുത് അവർ ആ വീട് നിരസിച്ചാൽ ഉടമസ്ഥാവകാശം ഇല്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അതിനാൽ വിജയകരമായ പങ്കാളിത്തം എന്നത് പ്രോജക്റ്റിൽ നിന്ന് ആളുകൾക്ക് ഈ ഉടമസ്ഥാവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാക്കണം സംഘട്ടന പരിഹാരങ്ങൾ ഒരുതരം അവിശ്വാസം ഉണ്ടായാൽ എല്ലായ്പ്പോഴും നമുക്ക് യോജിച്ച തീരുമാനങ്ങളിൽ എത്താൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് അവിടെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു കൂട്ടരെങ്കിലും അറിയണം ഗ്രൂപ്പുകളുടെ വീക്ഷണം അതിനാൽ പങ്കിടുന്ന അറിവും പങ്കിട്ട ധാരണയും പങ്കിട്ട താൽപ്പര്യവും ഉണ്ടായിരിക്കണം ചെലവ് കുറഞ്ഞതും പ്രാദേശിക അറിവും പ്രാദേശികമായി ലഭ്യമായ മറ്റ് പ്രകൃതിവിഭവങ്ങളും ഉപയോഗിക്കുകയും ആളുകളെ അവരുടെ അധ്വാനവും അവരുടെ ചുമതലകളും ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് സ്വയം സുസ്ഥിരമായ ചെലവ് ഫലപ്രദമായി കുറയ്ക്കും അവർക്ക് പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല അതിനാൽ അത് എളുപ്പത്തിൽ സ്വയം മെച്ചപ്പെടുത്തൽ സ്വയം ആശ്രയിക്കൽ തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് നയിക്കും അതിനാൽ അവർക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും ബാഹ്യ ഏജൻസികളെ ആശ്രയിക്കാതെ ആ പ്ലാൻ പിന്തുടരാനാകും മറ്റൊന്ന് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പ്രോജക്റ്റ് പൂർത്തിയാക്കിയാൽ അത് വളരെ ദൈർഘ്യമേറിയതായിരിക്കരുത് വളരെ ചെറുതായിരിക്കരുത് അതിനാൽ ഇവയാണ് പൊതുജന പങ്കാളിത്തത്തിന്റെ മാനദണ്ഡങ്ങൾ മുംബൈയിലെയും ഘാനയിലെയും ഗുജറാത്തിലെയും പൊതു പങ്കാളിത്തം പോലെയുള്ള വ്യത്യസ്ത കേസ് പഠനങ്ങളിൽ നിന്ന് ഒരു ചിത്രം നൽകാൻ ഞാൻ ശ്രമിക്കും അതിനാൽ ഈ പ്രഭാഷണം ശ്രവിച്ചതിന് വളരെ നന്ദി മറ്റ് പ്രഭാഷണങ്ങളിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും ഈ ആശയങ്ങൾ നമുക്ക് എങ്ങനെ പ്രയോഗിക്കാമെന്ന് കാണാൻ ചില കേസ് സ്റ്റഡീസ് നോക്കാം